ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷൻ മൂലമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ I a ഫൈനൈറ്റ് നീളമുള്ള ലൈൻ ചാർജ് ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷൻ മൂലമുള്ള എലെക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നാം കണ്ടു r പ്രൈമിൽ ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷൻ ഉണ്ടെങ്കിൽ ഞാൻ വെക്ടർ r ലെ പൊട്ടൻഷ്യൽ കണക്കാക്കുന്നു അപ്പോൾ r ലെ എലെക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വി 1 0 r |r r |d v ഇവിടെ d v ' സൂചിപ്പിക്കുന്നത് ഞാൻ r ' വേരിയബിളിൽ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ വോളിയുമിന് മുകളിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ ചാർജ് ഡിസ്ട്രിബ്യുഷൻ 0 അല്ല ഈ ലെക്ച്ചറിൽ നാം ചെയ്യാൻ പോകുന്നത് ഇതുപയോഗിച്ച് രണ്ടോ മൂന്നോ ചാർജ് ഡിസ്ട്രിബ്യുഷനുകളുടെ പൊട്ടൻഷ്യലുകൾ കണക്കാക്കുക എന്നതാണ് ഞാൻ എടുക്കാൻ പോകുന്ന ഉദാഹരണങ്ങൾ ഒന്ന് ചാർജ് ഡെന്സിറ്റി ലാംടാ ഉള്ള ഒരു ലീനിയർ ചാർജ് രണ്ട് ചാർജ് ഡെന്സിറ്റി ലാംടാ ഉള്ള റേഡിയസ് r ഉള്ള ഒരു റിങ് ചാർജ് ഇത് ഒരു ചാർജ് ചെയ്യപ്പെട്ട ഡിസ്ക് ആയി വളരെ എളുപ്പം സാമാന്യവൽക്കരിക്കാം നാം ഇത് ഒരു ചാർജിന്റെ മേലുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് അല്ലെങ്കിൽ ഫോഴ്സിന്റെ കാര്യത്തിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് ഒരു യൂണിഫോം ആയി ചാർജ് ചെയ്യപ്പെട്ട ഷെല്ലിന്റെ ചാർജ് സിഗ്മ യൂണിറ്റ് ഏരിയ യിൽ ഉള്ള ഒരു സ്ഫറിക്കൽ ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ കണക്കാക്കാനായി ഉപയോഗിക്കാൻ പോകുന്നു അപ്പോൾ നമുക്കൊരു ലൈൻ ചാർജിൽ ആരംഭിക്കാം ഈ ലൈൻ ചാർജിന്റെ കേന്ദ്രം ഒറിജിൻ ആണ് നീളം L 2 മുതൽ L 2 വരെയാണ് നിങ്ങൾക്ക് ഇലക്ട്രിക്ക് ഫീൽഡ് കണക്കാക്കുവാനായി പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നതിന്റെ മെച്ചം പിന്നീട് മനസ്സിലാകും പൊട്ടൻഷ്യലിന്റെ കാര്യത്തിൽ കംപോണന്റുകളെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ ചെയ്യേണ്ടത് ഒരു ചെറിയ ചാർജ് ലാംട d y മൂലമുള്ള പൊട്ടൻഷ്യൽ കണക്കാക്കുക അതിനുശേഷം ലാംട d y ഭാഗം 4 പൈ എപ്സിലോൺ 0 ഗുണം r മൈനസ് y y യൂണിറ്റ് വെക്ടർ കാണുക r മൈനസ് y എന്നത് ചാർജ് മുതൽ നാം എടുക്കുന്ന പോയിന്റ് വരെയുള്ള ദൂരമാണ് y യുടെ ലിമിറ്റുകൾ L 2 മുതൽ L 2 വരെ എടുത്ത് ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഉത്തരം ലഭിക്കും കംപോണന്റുകൾ ഇല്ല ഒരു കാൽകുലേഷൻ മാത്രമേയുള്ളു നമുക്ക് Vr കണക്കാക്കാം ഞാനിത് ഇങ്ങനെ എഴുതുന്നു Vxyz എന്നത് ലാംട ഭാഗം 4 പൈ എപ്സിലോൺ 0 ഇന്റഗ്രൽ L 2 മുതൽ L 2 വരെ d y ഭാഗം സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് z സ്ക്വയർ പ്ലസ് y മൈനസ് y പ്രൈം സ്ക്വയർ നാം ഒരു പോയിന്റ് y ക്കുവേണ്ടി ഇത് കണക്കാക്കുന്നു എന്നത് കൊണ്ട് നൊട്ടേഷൻ അൽപ്പം വ്യത്യാസപ്പെടുത്തുന്നു ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എ y പ്രൈമിന് മുകളിലാകയാൽ y മൈനസ് y പ്രൈം സ്ക്വയർ ഇടുന്നു നമുക്കിപ്പോൾ ഇന്റഗ്രേഷൻ നടത്താം x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്നത് റോ സ്ക്വയർ എന്ന് എടുക്കുക അപ്പോൾ വി x y z എന്നത് ലാംട ഭാഗം 4 പൈ എപ്സിലോൺ 0 ഇന്റഗ്രൽ L 2 മുതൽ L 2 വരെ d y ഭാഗം സ്ക്വയർ റൂട്ട് ഓഫ് റോ സ്ക്വയർ പ്ലസ് y മൈനസ് y പ്രൈം സ്ക്വയർ എന്നായി മാറുന്നു y പ്രൈം ന്റെ ലിമിറ്റുകൾ L 2 മുതൽ L 2 വരെ ആണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നതിന് ഞാൻ y മൈനസ് y പ്രൈം നെ റോ ടാൻജെന്റ് തീറ്റ എന്ന് എഴുതാം അപ്പോൾ എനിക്ക് d y പ്രൈം സമം റോ സീക്കേണ്ട സ്ക്വയർ തീറ്റ d തീറ്റ എന്നാകും ലിമിറ്റുകൾ തീറ്റ ഒന്ന് മുതൽ തീറ്റ രണ്ട് വരെ ആണ് തീറ്റ ഒന്ന് ടാൻ ഇൻവെർസ് y പ്ലസ് L ബൈ ടു ബൈ റോ തീറ്റ രണ്ട് ടാൻ ഇൻവെർസ് y മൈനസ് L ബൈ ടു ബൈ റോ ആണ് അപ്പോൾ ഇന്റഗ്രൽ ഇങ്ങനെ എഴുതാം വി x yz സമം ലാംടാ ഭാഗം നാലു പൈ എപ്സിലോൺ 0 മൈനസ് ചിഹ്നം മാറ്റുമ്പോൾ ലിമിറ്റുകൾ അന്യോന്യം മാറും അപ്പോൾ ഇന്റഗ്രേഷൻ തീറ്റ 2 മുതൽ തീറ്റ 1 വരെ ആകും സീക്കന്റ് സ്ക്വയർ തീറ്റ d തീറ്റ ഭാഗം റോ സീക്കേന്റ് തീറ്റ റോ കൾ തമ്മിൽ ക്യാൻസൽ ചെയ്യപ്പെടുന്നുഒരു സീക്കന്റ് തീറ്റയും ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ ഇവിടെ സീക്കണ്ട് തീറ്റ മാത്രമാകും അതിനാൽ പൊട്ടൻഷ്യൽ വി x yz ലാംടാ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ലോഗ് സെക് തീറ്റ 1 പ്ലസ് ടാൻ തീറ്റ 1 ഭാഗം സെക് തീറ്റ 2 പ്ലസ് ടാൻ തീറ്റ 2 ഇതാണ് ഉത്തരം ഇപ്പോൾ നമ്മുടെ പ്രത്യേക താൽപ്പര്യം L ന്റെ ലിമിറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോകുക അല്ലെങ്കിൽ y പൂജ്യത്തിലേക്ക് പോകുക നമുക്ക് L ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴുള്ള കാര്യം നോക്കാം അപ്പോൾ തീറ്റ 1 ടാൻ ഇൻവേഴ്സ് y പ്ലസ് L ബൈ 2 ബൈ റോ ആയിരുന്നത് ടാൻ തീറ്റ 1 സമം y പ്ലസ് L ബൈ ടു ബൈ റോ യും ടാൻ തീറ്റ 2 y മൈനസ് L ബൈ ടു ബൈ റോ യും ആകും ഇത് വി x yz നെ ലാംടാ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ലോഗ് സെക് തീറ്റ 1 പ്ലസ് ടാൻ തീറ്റ 1 ഭാഗം സെക് തീറ്റ 2 പ്ലസ് ടാൻ തീറ്റ 2 എന്ന് നൽകുന്നു ഇത് ലാംടാ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ലോഗ് സെക് തീറ്റ 1 എന്നത് ലോഗ് 1 ഭാഗം കോസൈൻ തീറ്റ 1 എന്നെഴുതുന്നു ടാൻജെന്റ് തീറ്റ 1 y പ്ലസ് L ബൈ ടു ഭാഗം റോ ആണ് ഇത് റോ ഭാഗം റൂട്ട് L ബൈ 2 സ്ക്വയർ പ്ലസ് റോ സ്ക്വയർ പ്ലസ് y പ്ലസ് L ബൈ ടു ഹോൾ സ്ക്വയർഡ് എന്നാകും നമുക്ക് ടാൻ തീറ്റ 1 എന്നത് y പ്ലസ് L ബൈ ടു ഭാഗം റോ ആണ് ടാൻ തീറ്റ 2 എന്നത് y മൈനസ് L ബൈ ടു ഭാഗം റോ ആണ് അതിനാൽ സീകന്റ തീറ്റ 1 എന്നത് റൂട്ട് റോ സ്ക്വയർ പ്ലസ് y പ്ലസ് L ബൈ ടു ഹോൾ സ്ക്വയർഡ് ഭാഗം റോ ആകും സീകന്റ തീറ്റ 2 എന്നത് റൂട്ട് റോ സ്ക്വയർ പ്ലസ് y മൈനസ് L ബൈ ടു ഹോൾ സ്ക്വയർഡ് ഭാഗം റോ ആകും നിങ്ങൾക്കിത് കണക്കാക്കാം L ന്റെ ലിമിറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ L പ്ലസ് ഓർ മൈനസ് L ബൈ ടു പ്ലസ് ഓർ മൈനസ് y എന്നത് L ബൈ ടു ആയി എടുക്കാം അപ്പോൾ നമുക്ക് വി x yz എന്നത് ലാംടാ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ലോഗ് 4 L2 റോ സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും 4 മുകളിലല്ല താഴെയാണ് L ഒന്നിനേക്കാളും വളരെ വളരെ വലുതാകയാൽ L സ്ക്വയർ ഭാഗം നാലു റോ സ്ക്വയർ ഒന്നിനേക്കാളും വളരെ വലുതായിരിക്കും അപ്പോൾ വി x yz എന്നത് ലാംടാ ഭാഗം നാലു പൈ എപ്സിലോൺ 0 ലോഗ് L2 4 മൈനസ് ലോഗ് റോ സ്ക്വയർ എഴുതാം L ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ടേം ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്നിരുന്നാലും പൊട്ടൻഷ്യൽ കണക്കാക്കുമ്പോൾ എനിക്ക് ഇൻഫിനിറ്റി എന്നത് കളയാം അതിനാൽ ഇത് ലാംടാ ഭാഗം നാലു പൈ എപ്സിലോൺ 0 മൈനസ് ഗുണം മൈനസ് 2 ലോഗ് റോ എന്ന് എഴുതാം അതായത് മൈനസ് ലാംടാ ഭാഗം രണ്ടു പൈ എപ്സിലോൺ 0 ലോഗ് റോ ഇതാണ് L ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴുള്ള ഉത്തരം ഇത് ഒരു ഇൻഫിനിറ്റി നീളമുള്ള വയറിന്റെ ഫലവുമായി ചേർന്ന് പോകുന്നു